ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് ഈ കോഴ്സിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു കൂടാതെ ഇന്ന് ഞങ്ങൾ വ്യക്തിപരമായി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും അതായത് ബുദ്ധിമുട്ടുള്ള ജീവനക്കാരെ കൈകാര്യം ചെയ്യുക എന്ന വിഷയം മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പരാതി നടപടിക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചു ജോലിസ്ഥലത്ത് അച്ചടക്കത്തോടെ നിങ്ങൾക്ക് പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യാം കൂടാതെ ഈ ക്ലാസിൽ ജോലി സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ജീവനക്കാരെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കും അതിനാൽ നമുക്ക് അതിൽ തുടരാം ഗോമസ് മെജിയ ബാൽകിൻ കാർഡി എന്നിവരുടെ അതേ പുസ്തകം നമ്മുടെ പക്കലുണ്ട് കൂടാതെ ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തലിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള കുറച്ച് പേപ്പറുകൾ കൂടിയുണ്ട് ഇത് ഇക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കൂടാതെ അത് വ്യക്തിപരമായി എനിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുള്ള ജീവനക്കാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ജീവനക്കാരെക്കുറിച്ചാണ് അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഒന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ ജീവനക്കാരാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് നിരീക്ഷണ സമയത്ത് ഒന്നുകിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകളിലൂടെയും ടെലിവിഷനുകളിലൂടെയും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിലിലൂടെയും അച്ചടക്കമില്ലായ്മ കണ്ടെത്തുന്നു ആരെങ്കിലും നിങ്ങളുടെ മെയിലിലൂടെ പോകുകയും അഭികാമ്യമല്ലാത്ത എന്തെങ്കിലും കണ്ടെത്തുകയും ചെയ്താൽ മറ്റൊന്ന് ഓഫീസ് റൊമാൻസ് ആണ് വളരെ സെൻസിറ്റീവായ വിഷയം ഈ പ്രഭാഷണത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കും മറ്റൊന്ന് ഹാജരില്ലായ്മ അല്ലെങ്കിൽ മോശം ഹാജർ മറ്റൊന്ന് മോശം പ്രകടനം ആളുകൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നില്ല മറ്റൊന്ന് അനുസരണക്കേട് നിങ്ങളുടെ കീഴുദ്യോഗസ്ഥർ നിങ്ങൾ പറയുന്നത് കേൾക്കാത്തപ്പോൾ അവർ മേലുദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുമ്പോൾ ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയങ്ങളിൽ ബാക്കിയുള്ളതിനേക്കാൾ കൂടുതൽ വിശദമായി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും കൂടാതെ മദ്യവുമായി ബന്ധപ്പെട്ട ദുരാചാരങ്ങൾ ജീവനക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ നിങ്ങൾ എന്തുചെയ്യും ആ സാഹചര്യത്തെ എങ്ങനെ നേരിടും ആരോ നിങ്ങളോട് പറയുന്നു ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന നിലയിലാണ് വിഷയം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള തെറ്റായ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തുചെയ്യണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജീവനക്കാരന്റെ പെരുമാറ്റം അവളുടെ അല്ലെങ്കിൽ അവന്റെ സ്വന്തം ജോലിയെ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് മറ്റാരുടെയെങ്കിലും ജോലിയെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ് അതിനാൽ ജീവനക്കാരൻ എന്തിനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതെന്നും എത്രത്തോളം എത്ര നാളായി ഉപയോഗിക്കുന്നുണ്ടെന്നും നിങ്ങൾ കണ്ടെത്തണം കൂടാതെ മയക്കുമരുന്ന് ഉപയോഗം ജോലിസ്ഥലത്താണോ അതോ ആ വ്യക്തി മയക്കുമരുന്ന് ഉപയോഗിച്ചാണോ ജോലിക്ക് വരുന്നതെന്നും നിങ്ങൾ കണ്ടെത്തണം ഈ മയക്കുമരുന്ന് ഉപയോഗം ജീവനക്കാരന്റെ സ്വന്തം ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്നുണ്ടോ അതോ ജോലിസ്ഥലത്തെ മറ്റ് ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത ഉൽപ്പാദനം എന്നിവയെ തടസ്സപ്പെടുത്തുന്ന പെരുമാറ്റങ്ങളിലേക്ക് ഇത് നയിക്കുന്നുണ്ടോ എന്നിവ കണ്ടെത്തണം വീണ്ടും നിങ്ങളുടെ സ്വകാര്യ ഇടം എന്ന പഴഞ്ചൻ പഴഞ്ചൊല്ലിന്റെ വലിയ ആരാധകനാണ് ഞാൻ എല്ലാവർക്കും വ്യക്തിപരമായ അതിരുകൾ ഉണ്ട് കൂടാതെ മയക്കുമരുന്ന് ഉപയോഗം ഞാൻ അംഗീകരിക്കുന്നില്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എന്ന നിലയിലുള്ള ഞങ്ങളുടെ കഴിവിൽ നമ്മളുടെ അതിരുകൾ അല്ലെങ്കിൽ നമ്മളുടെ അധികാരപരിധി ജീവനക്കാരന്റെ ജോലി വരെ ജോലിസ്ഥലത്ത് ജീവനക്കാരന്റെ സംഭാവന വരെ മാത്രമാണ് അതിനാൽ ജോലിസ്ഥലത്ത് ജീവനക്കാരന്റെ പെരുമാറ്റം മറ്റൊരാളുടെ ജോലിയെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾക്ക് ഇടപെടാൻ അവകാശമുണ്ട് പക്ഷേ വ്യക്തിയുടെ ഉൽപ്പാദനക്ഷമത ശരിയാണെങ്കിൽ ആരെയെങ്കിലും ഉപദേശിക്കുന്നത് ഉചിതമായി കണക്കാക്കണമെന്നില്ല അതിനാൽ വീണ്ടും ഇത് രാജ്യത്തെ നിയമത്തെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ കഴിയുന്നിടത്തോളം നമ്മൾ ജീവനക്കാരനോട് പറയുന്നതെല്ലാം ജോലിസ്ഥലത്തെ ജീവനക്കാരന്റെ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ടിരിക്കണം തുടർന്ന് മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ നിയമസാധുതയും തെറ്റായ പോസിറ്റീവുകളും ഉദാഹരണത്തിന് ഒരു ജീവനക്കാരൻ അനുചിതമായി പെരുമാറുന്നതായി കണ്ടെത്തി അല്ലെങ്കിൽ ജീവനക്കാരന്റെ ഔട്ട്പുട്ട് പ്രതീക്ഷിച്ച പോലെയല്ല കൂടാതെ ജീവനക്കാരനെ മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി അന്ന് ജോലിക്കാരൻ ഹിന്ദിയിൽ ഖസ് ഖസ് എന്നറിയപ്പെടുന്ന പോപ്പി വിത്തുകൾ കഴിച്ചു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ബാഗെലുകളിൽ പോപ്പി വിത്തുകൾ കണ്ടെത്താം ഇത് ബംഗാളിയിൽ പോസ്റ്റോ എന്നും അറിയപ്പെടുന്നു ഖസ് ഖസ് എന്നത് പല ഇന്ത്യൻ വിഭവങ്ങളിലും സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് കൂടാതെ ഒരു വ്യക്തി ഗണ്യമായ അളവിൽ ഖസ് ഖസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കറുപ്പ് ഉപയോഗത്തിന് പോസിറ്റീവ് ആണെന്ന് പരിശോധിക്കാം അത് വ്യക്തിയുടെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ലെങ്കിൽ ഇടപെടുന്നത് ശരിയായിരിക്കില്ല അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ നിയമസാധുത നിർണ്ണയിക്കേണ്ടതുണ്ട് പോസിറ്റീവ് മയക്കുമരുന്ന് ഉപയോഗ പരിശോധനകളുടെ ട്രീറ്റ്മെന്റ് ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ജോലിക്ക് വരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി കണ്ടെത്തി അല്ലെങ്കിൽ ജോലിയിൽ ഉൽപ്പാദനക്ഷമമല്ല അതെല്ലാം സ്ഥാപിക്കപ്പെട്ടുവെന്ന് നമുക്ക് അനുമാനിക്കാം പിന്നെ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ഇടപെടണം നിങ്ങൾ ജീവനക്കാരനെ ഡിസ്ചാർജ് ചെയ്യണം നിങ്ങൾ ജീവനക്കാരനോട് പെരുമാറണം മുൻ പ്രഭാഷണത്തിൽ നമ്മൾ പുരോഗമന അച്ചടക്ക വിദ്യകളെക്കുറിച്ച് സംസാരിച്ചു കൂടാതെ നാമെല്ലാവരും മനുഷ്യരാണ് എന്ന ലളിതമായ കാരണത്താൽ പുരോഗമനപരമായ അച്ചടക്ക വിദ്യകളോ പോസിറ്റീവ് അച്ചടക്ക വിദ്യകളോ ഉപയോഗിക്കുന്നതിന് ഞാൻ വളരെ അനുകൂലമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണലുകൾ എന്ന നിലയിലുള്ള നമ്മളുടെ ശേഷിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം അതിനാൽ നമ്മളുടെ ജോലി ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടി നിങ്ങൾ മോശമാണ് നിങ്ങൾ ഇത് ചെയ്തു നിങ്ങൾ ഇത് ചെയ്തില്ല ഞങ്ങൾ നിങ്ങളെ പുറത്താക്കാൻ പോകുന്നു എന്നിങ്ങനെ പറയുക എന്നതാണ് നമ്മൾ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നതിനും നമ്മൾ സേവിക്കുന്ന ഓർഗനൈസേഷന്റെ ഭാഗമാകാൻ അവരെ സഹായിക്കുന്നതിന് ഗണ്യമായ സമയവും പരിശ്രമവും ചെലവഴിച്ചു അതിനാൽ ഈ ജീവനക്കാരെ പ്രചോദിപ്പിക്കാനും ഈ ജീവനക്കാരിൽ നിന്ന് പരമാവധി ഔട്ട്പുട്ട് നേടാനും അവരെ പിരിച്ചുവിടുന്നതിനും മറ്റൊരാളെ ചേരുന്നതിനായി കാത്തിരിക്കുന്നതിനും മറ്റേയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നതിനുപകരം ജീവനക്കാരെ പിന്തുണക്കുന്നത് കൂടുതൽ സഹായിക്കും ഒരു ദുശ്ശീലത്തിൽ നിന്ന് കരകയറാൻ അവരെ സഹായിക്കുകയും ചെയ്യുക അവർക്ക് ഒരു മോശം ശീലമുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്നു നമുക്ക് കൌൺസിലിംഗ് ആരംഭിക്കാം ഇത്തരത്തിലുള്ള തെറ്റായ പെരുമാറ്റത്തിന് കാരണമായത് എന്താണെന്ന് കണ്ടെത്തുന്നതിലൂടെ നമുക്ക് ആരംഭിക്കാം തുടർന്ന് അവരെ സഹായിച്ചുകൊണ്ട് ചികിത്സയിലേക്ക് നീങ്ങുക അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കാൻ പിന്തുണ നൽകുകയും കൂടാതെ അവർക്ക് ന്യായമായ ഒരു കാലയളവ് നൽകുകയും ചെയ്യുക എന്നിട്ടും അവർ മെച്ചപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള വഴി സ്വീകരിച്ച് ജീവനക്കാരെ ഡിസ്ചാർജ് ചെയ്യണം ഈ പ്രഭാഷണ വേളയിൽ ഞാൻ വളരെയധികം ഊന്നിപ്പറയാൻ പോകുന്ന ഒരു കാര്യമാണ് രഹസ്യാത്മകത നിലനിർത്തുക എന്നത് ആരെങ്കിലും മയക്കുമരുന്ന് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ ദുരുപയോഗത്തിന്റെ വിശദാംശങ്ങൾ മറ്റ് ഓഫീസ് കമ്മ്യൂണിറ്റികളേയും വ്യക്തിയുടെ സമപ്രായക്കാരേയും അറിയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കണം അതിനാൽ പരിശോധനാ ഫലങ്ങളുടെ രഹസ്യസ്വഭാവം പ്രശ്നത്തിന്റെ രഹസ്യാത്മകത എന്തുവിലകൊടുത്തും നിലനിർത്തണം തുടർന്ന് ഈ ദുരുപയോഗത്തിന്റെ വിശദാംശങ്ങൾ മറ്റ് ഓഫീസ് കമ്മ്യൂണിറ്റികളേയും വ്യക്തിയുടെ സമപ്രായക്കാരേയും അറിയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കണം അതിനാൽ പരിശോധനാ ഫലങ്ങളുടെ രഹസ്യസ്വഭാവം പ്രശ്നത്തിന്റെ രഹസ്യസ്വഭാവം എന്തുവിലകൊടുത്തും നിലനിർത്തണം ഇലക്ട്രോണിക് നിരീക്ഷണം വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് നിരീക്ഷണങ്ങൾ ഉണ്ടാകാം ഒന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ സ്ഥാപനം എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ കടകളിൽ മോഷണം തടയുന്നതിനും കള്ളന്മാരെ തടയുന്നതിനും ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നത് തികച്ചും ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു ഡൈനിംഗ് ഹാളിന് മുന്നിൽ ശരിക്കും ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ വേണോ ബാത്ത്റൂമുകൾക്കുള്ള സ്ഥലത്തിന് മുന്നിൽ നിങ്ങൾക്ക് ശരിക്കും ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ ആവശ്യമുണ്ടോ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കുകയോ അന്തസ്സ് ഉറപ്പാക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടാതെ നിരന്തരമായ നിരീക്ഷണത്തിലായിരിക്കുക എന്നത് അത്ര സുഖകരമായ ഒന്നല്ല നിങ്ങളുടെ ജീവനക്കാരുടെ ഇമെയിലുകൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അത് സ്കാൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും നിങ്ങൾ ന്യായീകരിക്കണം ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് എല്ലാ ജീവനക്കാരെയും രേഖാമൂലം അറിയിക്കണം കൂടാതെ ഇത് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന തരത്തിൽ ആശയവിനിമയം നടത്തണം ഈ വിവരങ്ങൾ എല്ലായ്പ്പോഴും ഒരു പൊതു പോർട്ടലിൽ ലഭ്യമായിരിക്കണം അതിനാൽ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആളുകൾ അറിയണം കൂടാതെ അനാവശ്യമായ പെരുമാറ്റത്തിലോ യുക്തിരഹിതമായ പെരുമാറ്റത്തിലോ ഉള്ള ആസക്തിയെ അത് ഉടനടി തടയും അതിനാൽ ഈ ആശയവിനിമയം പുറത്തുപോകണം തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ അറിയണം ഈ സാഹചര്യങ്ങൾ വളരെ വിഷമകരമായി മാറിയേക്കാം ജോലിക്കാരൻ പ്രതീക്ഷിക്കുന്നതെന്തും ചെയ്തുകഴിഞ്ഞാൽ ഒരു ജീവനക്കാരൻ വിശ്രമിക്കുന്നത് അത്ര മോശമാണോ ജീവനക്കാരൻ ഒരു നിശ്ചിത എണ്ണം മണിക്കൂർ പ്രവർത്തിച്ച ശേഷം ചില വെബ്സൈറ്റുകൾ സാധാരണ ബ്രൌസ് ചെയ്യുന്നതിൽ നിന്ന് ജീവനക്കാരനെ തടയുന്നത് വളരെ പ്രധാനമാണോ ഒന്നുകിൽ ഉച്ചഭക്ഷണ സമയത്തോ അല്ലെങ്കിൽ ജോലി സമയത്തോ ഒരു ദിവസത്തിൽ 10 15 മിനിറ്റ് വരെയാകാം ആവാം ആവാതിരിക്കാം ഇലക്ട്രോണിക് മീഡിയ ലോഫിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഇത് അവരുടെ ഉൽപ്പാദനക്ഷമതയിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ഓർഗനൈസേഷന്ന് നിർണ്ണയിക്കാനാകും ഹാബിച്വൽ ഇലക്ട്രോണിക് ലോഫിംഗ് അതിനർത്ഥം ഒരു വ്യക്തി നിരന്തരം വീഡിയോ ഗെയിമുകൾ കളിക്കുന്ന ശീലത്തിലാണ് അതിനർത്ഥം അവൾ അല്ലെങ്കിൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ജോലിയിൽ ഉൽപ്പാദനക്ഷമമാകാതെ നെറ്റ് സർഫിംഗ് ശീലമാണ് അതിനാൽ ഓഫീസ് കമ്പ്യൂട്ടറിൽ നിന്ന് വ്യക്തിഗത ഇമെയിൽ അയയ്ക്കുന്നതിൽ നിന്ന് ജീവനക്കാരെ തടയുന്നു നിങ്ങൾക്ക് വളരെ നിർണായകമായ രഹസ്യാത്മക വിവരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ആവശ്യമായി വന്നേക്കാം അല്ലെങ്കിൽ അത് അത്ര വലിയ കാര്യമാണോ എനിക്കറിയില്ല ഇത് ന്യായമാണോ അല്ലയോ എന്ന് സംഘടനയാണ് തീരുമാനിക്കേണ്ടത് അതിനാൽ ജീവനക്കാരെ ശാസിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഞാൻ ഇത് വീണ്ടും ഊന്നിപ്പറയുന്നു ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടെത്തിയാൽ രഹസ്യസ്വഭാവം പാലിക്കേണ്ടതുണ്ട് അതിനാൽ ജീവനക്കാരനെ അകറ്റി നിർത്തുന്നില്ല ജീവനക്കാരനോട് അവന്റെ അല്ലെങ്കിൽ അവളുടെ സമപ്രായക്കാർ അന്യായമായി പെരുമാറുന്നില്ല അതിനാൽ ഏത് സമയത്തും ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്കമില്ലായ്മ കണ്ടെത്തിയാൽ ജീവനക്കാരനെ സൂപ്പർവൈസർ വിളിക്കണം ഫീഡ്ബാക്ക് നൽകി സ്വകാര്യമായി ന്യായമായ സമയത്തിനുള്ളിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റം ശരിയാക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ അവസരം നൽകുകയോ ചെയ്യുന്നു ഓഫീസ് റൊമാൻസ് കൈകാര്യം ചെയ്യുന്നത് മറ്റൊന്നാണ് ഓഫീസ് റൊമാൻസ് വളരെ സെൻസിറ്റീവ് വിഷയമാണ് ഇക്കാലത്ത് ആളുകൾ ഓടുമ്പോൾ ആളുകൾ ഈ വേഗതയേറിയ ജീവിതത്തിനൊപ്പം ആയിരിക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് സമപ്രായക്കാരുമായി ഇടപഴകാൻ സമയമില്ല അതിനാൽ അവർ പങ്കാളികളെ എവിടെ കണ്ടെത്തും സമാന ചിന്താഗതിക്കാരായ ആളുകളെ കണ്ടുമുട്ടുന്ന ഒരേയൊരു സ്ഥലമാണ് ഓഫീസ് അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ഓഫീസ് പ്രണയം പൂവണിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലും കാലാവസ്ഥയിലും ഇത്തരത്തിലുള്ള സാഹചര്യം എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ഓർഗനൈസേഷൻ തീരുമാനിക്കണം ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ ഒരു മേലുദ്യോഗസ്ഥനും കീഴാളനും തമ്മിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധത്തിന് ഇത് അനുയോജ്യമല്ല കീഴുദ്യോഗസ്ഥന്റെ തൊഴിൽ ജീവിതത്തിന്മേൽ കീഴുദ്യോഗസ്ഥന്റെ കരിയറിന്മേൽ അധികാരമുള്ള മേലധികാരിയായി അതിനെ തെറ്റിദ്ധരിക്കാവുന്നതാണ് കൂടാതെ അസോസിയേഷനെ പല തരത്തിൽ അനീതിയായി കണക്കാക്കാം അത് കൂടുതൽ പ്രശ്നങ്ങൾക്കുള്ള ഒരു കേന്ദ്രമാകാം യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാത്ത പരസ്പരം ആശ്രയിക്കുന്ന സമപ്രായക്കാർ തമ്മിലുള്ള ഓഫീസ് പ്രണയം വളരെ മോശമാണോ ഉൾപ്പെട്ട ആളുകളുടെ ഉൽപ്പാദനക്ഷമതയിൽ ഇത് ഓഫീസിനെ എങ്ങനെ എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്ന് ഓഫീസ് നിർണ്ണയിക്കണം കൂടാതെ അത് നയം തീരുമാനിക്കുന്നതിനുള്ള അടിസ്ഥാനമായിരിക്കണം കൂടാതെ പോളിസി തീരുമാനിക്കുമ്പോൾ പോളിസി വ്യക്തമായ വ്യവസ്ഥകളിൽ എഴുതണം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ വിശദീകരിക്കണം കൂടാതെ ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടെത്തിയാൽ ഉണ്ടാകാവുന്ന അനന്തരഫലങ്ങളുടെ വിശദാംശങ്ങൾ രേഖാമൂലം ജീവനക്കാരെ അറിയിക്കണം അതിനാൽ ഇതെല്ലാം എഴുതണം ന്യായമായ നടപടിയെടുക്കുകയും ഇത്തരം സാഹചര്യങ്ങളെ സംബന്ധിച്ച് ന്യായമായ തീരുമാനങ്ങൾ എടുക്കുകയും വേണം ഇത് കണ്ടെത്തുമ്പോൾ രഹസ്യസ്വഭാവം നിലനിർത്തണം ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ രഹസ്യസ്വഭാവം നിലനിർത്തൽ അത്യന്താപേക്ഷിതമാണ് എന്താണ് നല്ലത് എന്താണ് ധാർമ്മികത എന്താണ് അനീതി അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നത് സമൂഹം എന്ത് സ്വീകരിക്കുന്നു അത് സമൂഹത്തിന്റേതാണ് അതിനാൽ ഞാൻ ഇവിടെ പ്രസംഗിക്കാനല്ല എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഇവിടെയില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് സാഹചര്യം ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഉൽപാദനത്തെ ബാധിക്കുകയാണെങ്കിൽ ഇത് ആശങ്കയ്ക്ക് കാരണമാകുന്നു കൂടാതെ HR വ്യക്തി ഇടപെടുന്നതിൽ കുഴപ്പമില്ല ഒരു സൂപ്പർവൈസർ ഇടപെടുന്നതിൽ കുഴപ്പമില്ല ഒപ്പം ഉൾപ്പെട്ട ആളുകളെ ഉപദേശിക്കുകയും ചെയ്യുക ഓഫീസിനോടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുക ഓഫീസിലെ ജീവനക്കാരുടെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്ന ജോലിയെ ഇത് ബാധിക്കുന്നില്ലെങ്കിൽ ഉൾപ്പെട്ട ആളുകളുടെ വ്യക്തിജീവിതത്തിൽ ഇടപെടുന്നത് എന്ത് ഉദ്ദേശ്യത്തോടെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഓർഗനൈസേഷൻ ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രശ്നം ഹാജരാകാതിരിക്കുന്നതോ അല്ലെങ്കിൽ മോശം ഹാജർ ആണ് ചില ആളുകൾ നിരന്തരം ജോലി നഷ്ടപ്പെടുന്ന ശീലത്തിലാണ് ചിലർക്ക് സ്ഥിരമായി ജോലിക്ക് വൈകി വരുന്നത് പതിവാണ് അംഗീകൃത അവധിയെടുക്കാതെ സ്ഥിരമായി ടേക്ക് ഓഫ് ചെയ്യുന്ന ശീലം ചിലർക്കുണ്ട് അതിനാൽ ഒരു പ്രത്യേക ദിവസം നിരവധി ജീവനക്കാർ ഹാജരായില്ലെങ്കിൽ ഇതു കണ്ടെത്തേണ്ടതുണ്ട് ഒരാൾ ആ വ്യക്തിയുടെ രേഖകൾ പരിശോധിച്ച് ഈ ജീവനക്കാരെ ഉപദേശിക്കുന്നത് എത്രത്തോളം ന്യായമാണെന്ന് കാണേണ്ടതുണ്ട് ഹാജർ പങ്ക് ന്യായമായിരിക്കണം അത് അനിവാര്യതകൾ കണക്കിലെടുക്കണം വ്യക്തിക്ക് ഉണ്ടായേക്കാവുന്ന വ്യക്തിപരമായ അത്യാഹിതങ്ങൾ ഇത് കണക്കിലെടുക്കണം വൈവിധ്യമാർന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുക്കണം നിയമങ്ങളുടെയും നയങ്ങളുടെയും സവിശേഷമായ പ്രയോഗത്തിന് കൂടുതൽ അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഞാൻ ഇന്ത്യയെപ്പോലുള്ള വൈവിധ്യമാർന്ന രാജ്യത്ത് നിന്നാണ് വന്നത് കൂടാതെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളിൽ ഒരാൾ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ കരുതുന്നു കൂടാതെ ചില സമയങ്ങളിൽ ജീവനക്കാർക്ക് ചില ഫ്ലെക്സിബിലിറ്റി നൽകാം അങ്ങനെ ചെയ്താൽ ജീവനക്കാരുടെ പ്രതിബദ്ധത ഉയരാൻ സാധ്യതയുണ്ട് ഈ നയങ്ങളിൽ സംഘടനയാണ് തീരുമാനമെടുക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ചില ദിവസങ്ങളിൽ ജോലി നഷ്ടപ്പെടുന്നതായി പറയപ്പെടുന്നു കാരണം അവരുടെ കുട്ടി രോഗിയാണ് അല്ലെങ്കിൽ അവർ മാതാപിതാക്കളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അവർക്ക് ഒരു പിടിഎ മീറ്റിംഗ് പാരന്റ് ടീച്ചർ അസോസിയേഷൻ മീറ്റിംഗ് എന്നിവയുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ കാര്യം എന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്കറിയാമോ തീർച്ചയായും സമയപരിധികൾ ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടുകയാണ് തീർച്ചയായും അവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടില്ല തീർച്ചയായും അവരുടെ ജോലി ചെയ്യാൻ മറ്റാരുമില്ല പക്ഷേ അടിയന്തിര സാഹചര്യങ്ങളിൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗിയായതിനാൽ അവർ അവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഒരു ശീലമായി മാറുന്നില്ലെങ്കിൽ കുറച്ച് വഴക്കം ഓർഗനൈസേഷനുകളെ വേദനിപ്പിക്കരുത് അതിനാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ അവരുടെ റൂൾ എത്രത്തോളം ന്യായമാണെന്ന് സംഘടന നിർണ്ണയിക്കണം കൂടാതെ ഈ നിയമത്തെക്കുറിച്ച് ജീവനക്കാർക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകണം നിയമം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കണം ജീവനക്കാർക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകണം കൂടാതെ അവരുടെ ഹാജർ നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ ഹാജർ കുറവാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ അറിഞ്ഞിരിക്കണം ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്കമില്ലായ്മയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ സ്വയം പ്രതിരോധിക്കാൻ ജീവനക്കാരന് ഒരു അവസരം നൽകുന്നത് തികച്ചും ആവശ്യമാണ് കൂടാതെ സാഹചര്യം ന്യായമായ രീതിയിൽ വിലയിരുത്തണം വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടെത്തുകയും ആരെയെങ്കിലും ഉപദേശിക്കുകയും ചെയ്താൽ അതിന്റെ രഹസ്യസ്വഭാവം എന്തുവിലകൊടുത്തും നിലനിർത്തണം മോശം പ്രകടനമാണ് മറ്റൊന്ന് മോശം പ്രകടനമുള്ള ജീവനക്കാരെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ജീവനക്കാരുടെ പ്രകടനത്തിന് ന്യായമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജീവനക്കാർ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ജീവനക്കാർക്ക് ന്യായമായ സൌകര്യം ഒരുക്കണം കൂടാതെ അത്യാവശ്യങ്ങൾക്ക് ന്യായമായ സൌകര്യം ഉണ്ടായിരിക്കണം അതിനാൽ ഇവയെല്ലാം പ്രകടന നയങ്ങളിൽ ഉൾപ്പെടുത്തണം കൂടാതെ ഓർഗനൈസേഷന്റെ പ്രകടന മാനദണ്ഡങ്ങൾ എല്ലാ ജീവനക്കാരെയും കഴിയുന്നത്ര വ്യക്തമായ രീതിയിൽ മുൻകൂട്ടി അറിയിക്കണം മോശം പ്രകടനത്തിന്റെ ഡോക്യുമെന്റേഷനും കൌൺസിലിംഗും പരിഹാര നടപടികളും ശിക്ഷ നൽകുന്നതിന് മുമ്പ് ചെയ്യണം വീണ്ടും ഞാൻ ഈ പോയിന്റിൽ ഊന്നിപ്പറയുകയാണ് ജീവനക്കാരെ വിജയിപ്പിക്കാൻ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് എച്ച്ആർ പ്രൊഫഷണലുകൾ എന്ന നിലയിൽ നമ്മളുടെ ജോലി ആരെയും താഴ്ത്തുക എന്നതല്ല ആരെയും ശിക്ഷിക്കാനല്ല എല്ലാ ജീവനക്കാരെയും അവരുടെ കഴിവിന്റെ പരമാവധി വിജയിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു തുടർന്ന് ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടെത്തിയാൽ അതിന്റെ ആവശ്യകത തിരുത്തൽ നടപടി ശിക്ഷ എന്നിവയെക്കുറിച്ച് ഒരാൾ രഹസ്യാത്മകത പാലിക്കേണ്ടതുണ്ട് അതിനാൽ അത് തികച്ചും അനിവാര്യമാണ് എനിക്ക് ഇതിൽ വേണ്ടത്ര ഊന്നൽ നൽകാനാവില്ല നാം കഴിയുന്നത്രയും രഹസ്യസ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ടെലികമ്മ്യൂട്ടിംഗ് ഇവിടെ മറ്റൊരു പ്രശ്നമാണ് ദുരുപയോഗം ചെയ്തില്ലെങ്കിൽ ടെലികമ്മ്യൂട്ടിംഗ് അത്ര പ്രശ്നമല്ല ടെലികമ്മ്യൂട്ടിംഗ് എന്നത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളെയും അവരുടെ ഓഫീസ് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവരെയും സൂചിപ്പിക്കുന്നു പക്ഷേ ഇത് ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനർത്ഥം ആളുകൾ ടെലികമ്മ്യൂട്ടിംഗ് ഓപ്ഷൻ എടുത്തേക്കാം ആളുകൾ ഈ ടെലികമ്മ്യൂട്ടിംഗ് ഓപ്ഷൻ ദുരുപയോഗം ചെയ്തേക്കാം അവർ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കാം എന്നാൽ അവർ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്രയും അവർ പ്രവർത്തിക്കുന്നില്ലായിരിക്കാം അതിനാൽ അത് ഒരു പ്രശ്നം സൃഷ്ടിച്ചേക്കാം അവർ ഏറ്റെടുത്ത ജോലിയോടുള്ള അവരുടെ വിശ്വാസ്യതയെയും പ്രതിബദ്ധതയെയും സംശയിക്കാൻ അത് സംഘടനയ്ക്ക് ഒരു കാരണം സൃഷ്ടിക്കും ഇപ്പോൾ ഇത് തടയുന്നതിന് ജീവനക്കാരന്റെ ജോലി ശീലങ്ങളും ഉൾപ്പെട്ടിരിക്കുന്ന ജോലിയുടെ തരവും കണക്കിലെടുത്ത് ടെലികമ്മ്യൂട്ടർമാരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം ഉൾപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ജോലി അവർക്ക് നൽകുന്നതോ ഈ ജോലിയുടെ ഗുണനിലവാരത്തിലേക്ക് പോകുന്നതോ ആണെങ്കിൽ ആളുകൾ മറ്റൊരു സ്ഥലത്ത് ഇരുന്ന് അവരുടെ ജോലി ചെയ്യുന്നു എന്ന വസ്തുതയെ ബാധിക്കില്ല അത് കുഴപ്പമില്ല പക്ഷേ കഴിയുന്നിടത്തോളം ടെലികമ്മ്യൂട്ടിംഗിനായി ഒരു നയം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇത് പരിഗണിക്കേണ്ടതാണ് തുടർന്ന് ടെലികമ്മ്യൂട്ടറുകൾ അവരുടെ സമയപരിധിയിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുക അവർക്ക് ന്യായമായ സമയപരിധി നൽകണം കൂടാതെ അവർ ആ സമയപരിധികൾ പാലിക്കുന്നില്ലെങ്കിൽ ചില തിരുത്തൽ നടപടികൾ ചില ആശങ്കകൾ പ്രകടിപ്പിക്കേണ്ടതാണ് അവർക്ക് മുന്നറിയിപ്പ് നൽകണം അതിനാൽ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നും എപ്പോൾ വരെ എന്നും അവർക്കറിയാം കൂടാതെ അവർ പറയുന്നത് അവർ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഓപ്ഷൻ എടുത്തുകളയാമെന്ന് അവർക്കറിയാം ഈ ഓപ്ഷൻ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ടെലികമ്മ്യൂട്ടറുകളുടെ അവസാനം സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ് സൂപ്പർവൈസർമാരുടെ ഉത്തരവാദിത്തമാണ് അതിനാൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നതിന് ആളുകൾക്ക് സ്ഥിരമായ നെറ്റ്വർക്ക് കണക്ഷനുകളിലേക്കോ ഫോൺ കണക്ഷനുകളിലേക്കോ ആക്സസ് ഉണ്ടായിരിക്കണം അതിനാൽ ആർക്കെങ്കിലും മോശം നെറ്റ്വർക്ക് കണക്ഷനുണ്ടെങ്കിൽ ആർക്കെങ്കിലും മോശം ഫോൺ കണക്ഷനുണ്ടെങ്കിൽ ടെലികമ്മ്യൂട്ടിംഗ് സമയത്ത് അവർക്ക് ഉൽപ്പാദനക്ഷമത കൈവരിക്കാൻ കഴിയില്ല അതിനാൽ ടെലികമ്മ്യൂട്ടർമാർക്ക് സ്ഥിരതയുള്ള കണക്ഷനും ടെലികമ്മ്യൂട്ടിനായി ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥിരതയുള്ള ആശ്രയയോഗ്യമായ സാങ്കേതികവിദ്യയും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഫോൺ അധിഷ്ഠിത തൊഴിലാളികൾ സ്ഥിരമായി ഓഫീസിൽ വരുക അതിനാൽ അവർക്ക് മീറ്റിംഗുകളിൽ പങ്കെടുക്കാനും മാനേജർമാരുമായി സംവദിക്കാനും കഴിയും തൊഴിലാളികൾ ഫോണിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്ന ചില സമയങ്ങളിൽ ബന്ധപ്പെടാനുള്ള ചില പോയിന്റുകൾ ഉണ്ടായിരിക്കണം അളക്കാവുന്ന ഫലങ്ങളോടെ പ്രകടന പ്രതീക്ഷകൾ ഉൾക്കൊള്ളുന്ന നന്നായി ആസൂത്രണം ചെയ്ത ടെലികമ്മ്യൂട്ടർ പ്ലാൻ വികസിപ്പിക്കുക അതിനാൽ അവർക്ക് ഒരു പദ്ധതി നൽകണം അവർക്ക് സമയപരിധി നൽകണം എപ്പോൾ എന്താണ് വേണ്ടതെന്ന് അവരോട് പറയണം കൂടാതെ അവരുടെ ജോലി കൈകാര്യം ചെയ്യണം അവരുടെ ജോലി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം കൂടാതെ പിന്നീടുള്ള ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് ഒരു തൊഴിൽ വ്യവസ്ഥയായി മാറരുത് അനുസരണക്കേടാണ് മറ്റൊന്ന് ഒരു സൂപ്പർവൈസറുടെ നേരിട്ടുള്ള ഉത്തരവ് അനുസരിക്കാൻ ജീവനക്കാരൻ വിസമ്മതിക്കുന്നു എന്നാണ് അനുസരണക്കേട് അർത്ഥമാക്കുന്നത് കൂടാതെ കമ്പനി നടത്താനുള്ള മാനേജ്മെന്റിന്റെ അവകാശത്തിനെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് ബോസ് പറയുന്നു നിങ്ങൾ പറയും ഞാനത് ചെയ്യില്ല അതിനെയാണ് അനുസരണക്കേട് എന്ന് പറയുന്നത് ഒരു ജീവനക്കാരൻ സൂപ്പർവൈസറെ വാക്കാൽ അധിക്ഷേപിക്കുമ്പോൾ ഇത് സംഭവിക്കാം അതിനാൽ ജീവനക്കാരൻ യുക്തിരഹിതമായ വാക്കുകൾ ഉപയോഗിക്കുന്നു സൂപ്പർവൈസർക്കെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓർഡറുകൾ നിയമവിരുദ്ധമോ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതോ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തേണ്ടി വരുന്നതോ ആണെങ്കിൽ അനുസരണക്കേട് സ്വീകാര്യമാണ് അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ പേരിൽ നിങ്ങൾക്ക് പിഴ ചുമത്തിയേക്കില്ല ആ ഉത്തരവ് കാരണം അയാൾ അല്ലെങ്കിൽ അവൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിലാണെന്ന് ജീവനക്കാരന് തോന്നുന്നുവെങ്കിൽ അത് ബാധകമായേക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ നിങ്ങൾ വിസമ്മതിക്കുന്നത് അനുസരണക്കേടായി കണക്കാക്കില്ല അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവന് അപകടമുണ്ടാക്കുന്ന പ്രതിരോധ സേവനങ്ങളെ തടയുന്നത് നിങ്ങളുടെ ജോലി വിവരണത്തിന്റെ ഭാഗമാണ് അതിനാൽ അനുസരണക്കേടിന്റെ കാരണം തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ജീവനക്കാരനാണ് അനുസരണക്കേട് കൈകാര്യം ചെയ്യൽ നിങ്ങൾ എങ്ങനെയാണ് അനുസരണക്കേട് കൈകാര്യം ചെയ്യുന്നത് അനുസരണക്കേടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തടയുന്നതിന് വാക്കാലുള്ള ഉത്തരവുകൾക്ക് പകരം രേഖാമൂലമുള്ള ഉത്തരവുകൾ എപ്പോഴും സഹായകരമാണ് അതിനാൽ ഒരു വിവാദം ഉയർന്നുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നിടത്ത് രേഖാമൂലമുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുക ജീവനക്കാരന് അവരുടെ വിയോജിപ്പ് രേഖാമൂലം അറിയിക്കാൻ കഴിയും കൂടാതെ ജീവനക്കാരന് ഇതിനെക്കുറിച്ച് ശക്തമായി തോന്നിയാൽ അത് ശരിയായിരിക്കാം അനുസരണക്കേടിന്റെ തെളിവ് ആവശ്യമാണ് അനുസരണക്കേടിന്റെ പേരിൽ ഒരു ജീവനക്കാരനെ ശിക്ഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ പ്രശ്നത്തിന്റെ ഗൌരവം പരിഗണിക്കണം അനുസരണക്കേടിന്റെ കാരണവും കണക്കിലെടുക്കണം അനുസരണക്കേട് നിങ്ങൾ സംശയിക്കുമ്പോഴെല്ലാം ജീവനക്കാരൻ പ്രതീക്ഷിച്ചത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് സഹായിക്കും കൂടാതെ പ്രശ്നം കണ്ടെത്തിയാൽ അതിന്റെ രഹസ്യസ്വഭാവം നിലനിർത്തുക ഒപ്പം അനുസരണക്കേട് കണ്ടെത്തിയാൽ ജീവനക്കാർക്ക് നൽകുന്ന ശാസനകൾ നൽകാം ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തൽ ഈ വിഷയം എന്റെ ഹൃദയത്തോട് വളരെ അടുത്താണ് കൂടാതെ ഞാൻ ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കും ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തൽ ഒരു തരത്തിലുള്ള ഉപദ്രവമാണ് അത് ജീവനക്കാർക്ക് മാനസിക ക്ലേശം ശാരീരിക രോഗങ്ങൾ ഉൽപ്പാദനക്ഷമത നഷ്ടപ്പെടൽ വിഷലിപ്തമായ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഉയർന്ന പ്രവണത എന്നിവയിൽ കലാശിക്കുന്നു തങ്ങളുടെ ബോസിന്റെയോ സഹപാഠികളുടെയോ പെരുമാറ്റം കാരണം ജീവനക്കാർ സമ്മർദ്ദത്തിലാണെന്ന് തോന്നുന്നുവെങ്കിൽ അതിനെ ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തൽ എന്ന് വിളിക്കുന്നു തുടർച്ചയായി നടക്കുന്ന കുറ്റകരമായ അധിക്ഷേപകരമായ ഭീഷണിപ്പെടുത്തുന്ന ക്ഷുദ്രകരമായ അല്ലെങ്കിൽ അപമാനകരമായ അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ അന്യായമായ ശിക്ഷാ ഉപരോധം എന്നിവ സ്വീകർത്താവിനെ അസ്വസ്ഥനാക്കുന്നു ഇത് അവരുടെ ആത്മവിശ്വാസം തകർക്കുകയും സമ്മർദ്ദം അനുഭവിക്കാൻ കാരണമാവുകയും ചെയ്യും അതിനാൽ തന്റെ മേലുദ്യോഗസ്ഥരുടെയോ സമപ്രായക്കാരുടെയോ പെരുമാറ്റത്താൽ ജീവനക്കാരന് ഭീഷണി അനുഭവപ്പെടുകയും അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഏതൊരു സാഹചര്യത്തെയും ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തൽ എന്ന് വിളിക്കുന്നു നിങ്ങൾ മോശക്കാരനാണെന്നും നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്നും ആരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല ആരും നിങ്ങളോട് നല്ലവരായിരിക്കില്ലെന്നും ആരോ നിരന്തരം നിങ്ങളോട് പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു പക്ഷേ എല്ലാവരും എന്തെങ്കിലും പറയുന്നു അല്ലാത്തപക്ഷം ഇതാണ് നിങ്ങളുടെ പ്രശസ്തി അല്ലാത്തപക്ഷം നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാം സഹായത്തിനായി ആളുകൾ എന്തിന് നിങ്ങളുടെ അടുക്കൽ വരണം സഹായത്തിനായി അവർ എന്തിന് നിങ്ങളെ സമീപിക്കണം നിങ്ങൾ ഒരു സ്വേച്ഛാധിപതി എന്നാണ് അറിയപ്പെടുന്നത് താൻ ചെയ്ത മോശമായ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റം ചുമത്തുന്ന ചില ആളുകളുണ്ട് അവർ അത് ചെയ്യുന്നു കൂടാതെ അവർ തങ്ങളുടെ കീഴിലുള്ളവരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ നിരന്തരം വിരൽ ചൂണ്ടുന്നു അത് ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തലിന്റെ ഒരു രൂപമാണ് അത് സഹിക്കാൻ പാടില്ല പക്ഷേ തങ്ങളുടെ മേലധികാരികളെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കാത്തതിനാൽ ജീവനക്കാർ ഇത് സഹിക്കുന്നു അതോടൊപ്പം അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു കൂടാതെ അത് അവരുടെ ഉൽപാദനക്ഷമതയെയും ബാധിക്കുന്നു ഭീഷണിപ്പെടുത്തലിന്റെ തരങ്ങൾ തെറ്റായ ആരോപണം നിങ്ങൾ തെറ്റ് ചെയ്യാത്തപ്പോൾ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തുവെന്ന് ആർക്കെങ്കിലും പറയാനാകും അഭിപ്രായങ്ങളോ ഇൻപുട്ടുകളോ അവഗണിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു നിങ്ങൾ ചില ഇൻപുട്ടുകൾ നൽകുന്നു എന്നാൽ ആളുകൾ അവ കണക്കിലെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബോസിന്റെ ഗ്രൂപ്പിലുള്ള മറ്റ് ചില ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളിക്ക് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മാനദണ്ഡങ്ങളോ നയങ്ങളോ അതിനാൽ ഒരാളെ ഒരു തരത്തിൽ പരിഗണിക്കുന്നു പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തിയെ മറ്റൊരു രീതിയിൽ പരിഗണിക്കുന്നു തൊഴിലാളിയെ കുറിച്ച് ഗോസിപ്പ് പ്രചരിക്കുന്നു നിങ്ങൾ പോയാൽ ആരെങ്കിലും ബന്ധപ്പെട്ട വ്യക്തിയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പരസ്യമായി പറയുകയാണെങ്കിൽ മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും നിരന്തരമായ വിമർശനം നിങ്ങൾക്കറിയാം നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് നിങ്ങൾ ഒന്നിനും അർഹരല്ല ഇത് നിങ്ങൾക്ക് നൽകരുത് തൊഴിലാളിയെ കുറിച്ച് പരസ്യമായോ സ്വകാര്യമായോ നടത്തിയ അവഹേളനപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നിങ്ങളുടെ മുഖത്ത് പറയും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി വേണ്ടത്ര പോരാത്തതാണ് എന്നത് ഒരു കാര്യം പക്ഷേ നിങ്ങൾ മോശമാണ് നിങ്ങൾ മോശമാണ് നിങ്ങൾ മോശമാണ് നിങ്ങൾ മോശമാണ് എന്ന് നിരന്തരം നിങ്ങളോട് പറയുന്നത് ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തലാണ് അത് സഹിക്കാൻ പാടില്ല കീഴുദ്യോഗസ്ഥനോട് ആക്രോശിക്കുന്നു നിങ്ങളുടെ ശബ്ദം ഉയർത്തുന്നു പ്രോജക്റ്റുകളിൽ നിന്നോ മീറ്റിംഗുകളിൽ നിന്നോ ഉള്ള ഒരു ഉദ്ദേശപരമായ ഒഴിവാക്കലാണ് മറ്റൊന്ന് അതിനാൽ നിങ്ങൾ അർഹിക്കുന്ന അവസരം നിങ്ങൾക്ക് നൽകുന്നില്ല ടാർഗെറ്റു ചെയ്ത ജീവനക്കാരന്റെ ജോലിയുടെ ക്രെഡിറ്റ് മറ്റ് തൊഴിലാളികൾക്ക് നൽകുക അല്ലെങ്കിൽ ടാർഗെറ്റു ചെയ്ത ജീവനക്കാരന് ക്രെഡിറ്റ് നിഷേധിക്കുന്നത് മറ്റൊന്നാണ് അതിനാൽ നിങ്ങൾ ജോലി ചെയ്യുന്നു എന്നാൽ അതിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് ലഭിക്കും കൂടാതെ തൊഴിലാളികളെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നു ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തൽ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു കഴിയുന്നിടത്തോളം വിശദമായ ഡോക്യുമെന്റേഷൻ സൂക്ഷിക്കുക ശല്യക്കാരനോട് സംസാരിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തുക എല്ലായ്പ്പോഴും ജീവനക്കാരനെ കുറ്റപ്പെടുത്തുന്നതിനുപകരം പ്രമേയത്തിലോ മുന്നോട്ടുള്ള വഴിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തൽ ഉപദ്രവിക്കൽ നയം രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക ഈ നയം അറിയിക്കുക ഭീഷണിപ്പെടുത്തലും ഉപദ്രവിക്കലും ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സംസ്കാരം രൂപപ്പെടുത്തുക ഭീഷണിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട സംഘടനാ ഘടകങ്ങളെ കുറിച്ച് ബോധവാനായിരിക്കുകയും അവ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക സംഘടനയുടെ ഭീഷണിപ്പെടുത്തൽ ഉപദ്രവിക്കൽ നയത്തിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കുക ഒരു നയം തയ്യാറാക്കുക നിർദ്ദേശിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പിന്തുടരുക സെൻസിറ്റീവ് ആയിരിക്കുക വസ്തുനിഷ്ഠമായിരിക്കുക ഭീഷണിപ്പെടുത്തൽ എവിടെയാണ് സംഭവിക്കുന്നത് എന്തിനാണ് ഭീഷണിപ്പെടുത്തൽ സംഭവിക്കുന്നത് ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് തുടങ്ങിയവ കണ്ടെത്താൻ വിവരങ്ങൾ അന്വേഷിക്കുക എന്താണ് ഭീഷണിപ്പെടുത്തലെന്നും അല്ലാത്തത് എന്താണെന്നും അറിയുക ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത് പോലെ നിങ്ങൾ വേണ്ടത്ര പ്രകടനം നടത്തുന്നില്ലെന്ന് നിങ്ങളുടെ ബോസ് പറയുന്നത് ഭീഷണിപ്പെടുത്തലല്ല പക്ഷേ നിങ്ങൾ നിരന്തരം അപമാനിക്കപ്പെടുന്നത് ഭീഷണിപ്പെടുത്തലാണ് വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിൽ ഉൾപ്പെട്ട വ്യക്തികളിലല്ല ഇത് ചെയ്യേണ്ടതുണ്ടെന്ന് പറയുക കൂടാതെ അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുക അച്ചടക്കത്തിനായി ഒരു ജീവനക്കാരനെ ഒറ്റപ്പെടുത്തരുത് ഇത് ഒരു പ്രശ്നമാണെങ്കിൽ പ്രതീക്ഷിക്കാത്തതെന്തും ചെയ്യുന്ന എല്ലാവരേയും അതേ രീതിയിൽ തന്നെ പരിഗണിക്കണം കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ തെറ്റുകളോട് പ്രതികരിക്കരുത് പിന്നെ വിരൽ ചൂണ്ടരുത് ഇത് മോശമാണ് ഇത് മോശമാണ് നിങ്ങൾ ഇത് ചെയ്തു നിങ്ങൾ ചെയ്തിട്ടില്ല എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയരുത് ജീവനക്കാരനെ നിരന്തരം ഒരു സ്ഥലത്ത് നിർത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും തമാശകളിൽ ജാഗ്രത പാലിക്കുക നമ്മുടെ നർമ്മബോധം വളരെ മികച്ചതാണെന്ന് പലപ്പോഴും ഞങ്ങൾ കരുതുന്നു അത് സാഹചര്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം കൂടാതെ ഇതിനകം തന്നെ ബലഹീനത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തമാശകളിൽ അത്ര സുഖം തോന്നിയേക്കില്ല ശാസനകൾ സ്വകാര്യമായി സൂക്ഷിക്കുക ജീവനക്കാരനോട് മോശമായ കാര്യങ്ങൾ പറയരുത് ഹൈപ്പർസെൻസിറ്റീവ് ആയിരിക്കരുത് സാഹചര്യങ്ങളോട് അമിതമായി പ്രതികരിക്കരുത് ഭീഷണിപ്പെടുത്തുന്നയാളോടുള്ള പ്രതികരണമായി ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തൽ നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേക തന്ത്രങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുക പെരുമാറ്റം സ്വീകാര്യമല്ലെന്ന് ആക്രമണകാരിയെ അറിയിക്കുക ആദ്യം വാക്കാൽ തുടർന്ന് രേഖാമൂലം ഇരയും ആക്രമണകാരിയും തമ്മിലുള്ള സമ്പർക്കം ഒഴിവാക്കാൻ പ്രാഥമികമായി ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ മാറ്റുക അക്രമി രണ്ടിനെയും വേർപെടുത്തട്ടെ രണ്ടും കഴിയുന്നിടത്തോളം ശാരീരികമായി വേർതിരിക്കുക തുടർന്ന് ബന്ധപ്പെട്ട കക്ഷികളുടെ പെരുമാറ്റം നിരീക്ഷിക്കുക മേൽനോട്ടം തികച്ചും അനിവാര്യമാണ് പിന്നെ പരിശീലനം ആളുകൾ എന്താണ് ബന്ധമുള്ള ആക്രമണം എന്നും അതിൽ അവർക്ക് എന്തുചെയ്യാൻ കഴിയും എന്നും അറിഞ്ഞിരിക്കണം പ്രകടന അവലോകനം ഇത് സംബന്ധിച്ച് ആളുകളുടെ ഫീഡ്ബാക്ക് നൽകാൻ നിങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇരയ്ക്ക് പ്രാഥമികമായി ആക്രമണകാരിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കാൻ സ്ഥലംമാറ്റം അല്ലെങ്കിൽ പുനർനിയമനം നൽകുന്നു രണ്ടുപേരെയും ശാരീരികമായി വേർതിരിക്കുന്നു മെന്ററിംഗ് അതായത് ആളുകളെ പരിശീലിപ്പിക്കുക ഒരാൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തിഗത ചികിത്സയും പിന്തുണയും നിരവധി ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ട്രീറ്റ്മെന്റും സപ്പോർട്ടും സഹായിക്കും സ്ഥാപനത്തിന് നിങ്ങളുടെ നിയമന നയങ്ങൾ അവലോകനം ചെയ്യുക ഭീഷണിപ്പെടുത്തൽ രീതികൾ ആക്രമണകാരികളായ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിൽ ഭയപ്പെടരുത് ഭീഷണിപ്പെടുത്തുന്നവരെ തിരിച്ചറിയുന്നതും അവരുമായി ഇടപെടുന്നതിനുള്ള നടപടിക്രമങ്ങൾ രൂപപ്പെടുത്തുന്നതുമായ ഭീഷണിപ്പെടുത്തൽ വിരുദ്ധ നയത്തിന്റെ വികസനവും നടപ്പാക്കലും പ്രതികാരത്തെ ഭയപ്പെടാതെ ബന്ധപ്പെട്ട ആക്രമണകാരികളെ തിരിച്ചറിയാൻ ഇരകൾക്കായി ഒരു ഔപചാരിക മുൻവിധിയില്ലാത്ത റിപ്പോർട്ടിംഗ് നടപടിക്രമം സൃഷ്ടിക്കുക ഒരു എച്ച്ആർ വ്യക്തിയുടെ അടുത്തോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ആരെങ്കിലുമടുത്തോ അവരുടെ ആശങ്കകൾ പങ്കു വെക്കുന്നതിൽ ജീവനക്കാരന് സുഖം തോന്നണം ഭീഷണിപ്പെടുത്തൽ എന്താണെന്നും അത് എന്തല്ലെന്നും ആളുകൾ അറിഞ്ഞിരിക്കണം ഞാൻ കൈകാര്യം ചെയ്യുന്ന അവസാന തരം ദുരാചാരം മദ്യവുമായി ബന്ധപ്പെട്ട ദുരാചാരങ്ങളാണ് വിട്ടുമാറാത്ത മദ്യപാനവും ജോലിസ്ഥലത്ത് മദ്യപിക്കുന്ന ജീവനക്കാരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് സ്വഭാവദൂഷ്യത്തിന്റെ തീവ്രത മറ്റൊന്നാണ് തെറ്റായ പെരുമാറ്റം എത്ര മോശമാണ് അത് ജോലി തടസ്സപ്പെടുത്തുന്നുണ്ടോ മയക്കുമരുന്ന് ഉപയോഗ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നതിന് സമാനമാണ് ഇത് ജോലിസ്ഥലത്ത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന മദ്യത്തോടുള്ള വ്യക്തിയുടെ ആശ്രിതത്വം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ നിങ്ങൾക്ക് തിരുത്തൽ കൌൺസിലിംഗും പരിഹാര നടപടികളും സ്വീകരിക്കാം അതിനുശേഷം മാത്രമേ നിങ്ങൾ ജീവനക്കാരനെ ഡിസ്ചാർജ് ചെയ്യാവൂ ജോലിക്കാരനെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അവരെ സഹായിക്കുക മയക്കുമരുന്ന് ഉപയോഗം പോലെ മദ്യപാനം ഒരു രോഗമാണ് കൂടാതെ അത് മറികടക്കാൻ ജീവനക്കാരനെ പിന്തുണയ്ക്കണം കൂടാതെ കഴിയുന്നിടത്തോളം രേഖകളുടെ രഹസ്യസ്വഭാവം സൂക്ഷിക്കുക ഇവിടെ ഈ പ്രഭാഷണം ഞാൻ നിർത്തുന്നു ഈ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് കുറച്ചുകൂടി സംസാരിക്കും ശ്രദ്ധിച്ചതിന് നന്ദി